നമ്മൾ വീണ്ടും ഡിസി സർക്യൂട്ടിൻ്റെ മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരുന്നു നിങ്ങൾ ഒരു പ്രശ്നവും അഭിമുഖികരിക്കേണ്ടി വരാതിരിക്കാൻ ആണ് ധാരാളം ഉദാഹരണങ്ങൾ നൽകുന്നത് ഏതെങ്കിലും പുസ്തകത്തിലൂടെ കടന്നുപോവുകയാണെങ്കിൽ ഏത് പുസ്തകത്തിലൂടെയും കടന്നുപോകുകയാണെങ്കിൽ ഈ തരത്തിലുള്ള വ്യതിയാനത്തേക്കാൾ കൂടുതൽ ലഭിക്കില്ലെന്ന് പറയും അതിനാൽ ഇത് നിങ്ങൾക്ക് വളരെ സഹായകരമാകും പക്ഷേ എസി സർക്യൂട്ട് സിംഗിൾ ഫേസിനും 3 ഫേസ് നും നിരവധി ഉദാഹരണങ്ങൾ അങ്ങനെ നൽകാൻ കഴിയില്ല കാരണം എല്ലാം ഇപ്പോൾ അറിയാം കാരണം ഒരേയൊരു കാര്യം ഇത് സങ്കീർണ്ണ സംഖ്യയ്ക്ക് കണക്കുകൂട്ടൽ സമയം എടുക്കും ഇവിടെ ഡിസി കംപ്യൂട്ടേഷനെക്കാൾ 4 മടങ്ങ് കൂടുതലോ അതിലധികമോ സമയം ആയിരിക്കും ഡിസി സർക്യൂട്ട് ഇനങ്ങൾക്ക് നിങ്ങൾക്കു നിരവധി ഉദാഹരണങ്ങൾ നൽകുന്നത് എന്തുതന്നെ വേണമെങ്കിലും വിശ്വസിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ വ്യതിയാനങ്ങൾ നിങ്ങൾക്കു ലഭിക്കില്ല നമുക്ക് ഈ ഉദാഹരണത്തിലേക്ക് വരാം ഇപ്പോൾ ചോദ്യം എന്താണെന്നു വെച്ചാൽ ഇവിടെ ടെർമിനലുകളിൽ 1 2 തെവെനിൻ തുല്യമായ സർക്യൂട്ട് നേടേണ്ടതുണ്ട് ഇപ്പോൾ ഇത് നൽകുന്നത് ഒരു തെവെനിൻ തത്തുല്യമാണ് അതിൽ നിന്ന് എളുപ്പത്തിൽ നോർട്ടണിലേക്ക് മാറ്റാൻ കഴിയും അതിനാൽ ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് 3 i0 ആണ് ഇത് i0 ആണ് അത്തരം ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് അതിനർത്ഥം ഒരു വോൾട്ടേജ് സ്രോതസ്സിലേക്കു കണക്റ്റുചെയ്യണം കാരണം അത് ഇല്ലാതെ നമുക്കു RThevenin ലഭിക്കില്ല അതിനാൽ ഇത് ചെയ്യുന്നതിന് RThevenin നേടേണ്ടതുണ്ട് ഇവിടെ ഒരു സ്വതന്ത്ര ഉറവിടവുമില്ല ആശ്രിത ഉറവിടം മാത്രമേയുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് സ്രോതസ്സ് പ്രയോഗിക്കുകയാണെങ്കിൽ 1 വോൾട്ടേജ് സ്രോതസ്സ് വോൾട്ടേജ് ഉറവിടം V0 നൽകിയിട്ടുണ്ടെന്ന് കരുതുക ഈ വോൾട്ടേജ് സ്രോതസ്സ് V0 നൽകിയിരിക്കുന്നു അതിനർത്ഥം ഈ ഘട്ടത്തിൽ ഈ വോൾട്ടേജ് സ്രോതസ്സ് V0 യഥാർത്ഥത്തിൽ 1 വോൾട്ട് ആണ് കാരണം കുറഞ്ഞ വൈദ്യുത ഘടകങ്ങൾ ഇവിടെ ബന്ധിപ്പിക്കുന്നു അതിനാൽ ഇത് V0 1 വോൾട്ട് ഈ സാഹചര്യത്തിൽ ഈ i0 കറന്റ് പ്രവേശിക്കുന്നു ഈ കറന്റ് V0 6 ആയിരിക്കും0 അതിനാൽ V0 1 വോൾട്ട് ആയതിനാൽ അടിസ്ഥാനപരമായി ഇത് 1 6 ആമ്പിയർ ആയി മാറും എങ്കിൽ ഇത് ഈ രീതിയിലാണെങ്കിൽ കറന്റ് പ്രവേശിക്കുന്നതെന്നു കരുതുക കറന്റ് പ്രവേശനം ഇവിടെ പ്രവേശിക്കുന്നത് പോലെയാണ് ഇവിടെ കറന്റ് പുറത്തേക്കു പോകുകയും ചെയുന്നു അതിനാൽ ഇതിലൂടെയുള്ള വൈദ്യുതധാര 1 6 ആണ് ഇതാണ് നോഡ് a ഇവിടെ KCL പ്രയോഗിക്കുക ആണെങ്കിൽ കറന്റ് പുറത്തേക്കു പോകുകയും ഈ വോൾട്ടേജ് V0 1 വോൾട്ട് V0 അർത്ഥമാക്കുന്നത് ഇത് V0 ആണെങ്കിൽ ഇതാണ് എങ്കിൽ എതിർ ഘടികാരദിശയിൽ നീക്കുക ഈ കറൻറ് 3 ആയിരിക്കും പിന്നെ ടെർമിനൽ അത് അഭിമുഖീകരിക്കുന്നു 3 i0 3 i0 പിന്നെ V0 0 V0 1 വോൾട്ട് അതിനർത്ഥം 3 V0 എന്നത് 1 വോൾട്ട് ആണ് അത് 1 3 i0 അതായത് 1 3 i0 3 അതിനാൽ ഇപ്പോൾ a നോഡിൽ KCL പ്രയോഗിക്കുകയാണെങ്കിൽ i0 ഇത് ഈ കറൻറ് പുറത്തേക്കു പോകുകയുമാണ് 1 6 കാരണം ഈ വോൾട്ടേജ് V0 6 ആണ് കാരണം 6 പ്രതിരോധം അതിനാൽ 1 6 അതിനാൽ ഈ പദപ്രയോഗം ഇടുകയാണെങ്കിൽ 1 3 0 3 ഇവിടെ അത് പരിഹരിക്കുക നിങ്ങൾക്കു i0 ലഭിക്കും ഇവിടെ ഇതാ i0 1 6 1 3 i0 3 എന്ന് ലഭിക്കും അതിനാൽ i0 1 4 ആമ്പിയർ RThevenin പിന്നെ V0 i0 ആകും V0 1 വോൾട്ട് എടുക്കും അതിനാൽ 1 1 4 അതിനാൽ 4 Ω RThevenin 4 ഇവിടെ ഈ സർക്യൂട്ടിൽ സ്വതന്ത്രമായ ഒരു സ്രോതസ്സ് ഇല്ല അത് ആശ്രിത സ്രോതസ്സ് സ്വതന്ത്ര സ്രോതസ്സ് ഇല്ല അതിനാൽ ഒരു V അറിയാമെങ്കിൽ VThevenin 0 ആയിരിക്കും കാരണം സ്വതന്ത്ര ഉറവിടം നേരത്തെ കണ്ടിട്ടുണ്ട് ഒരു ഉദാഹരണം കണ്ടു അതിനാൽ VThevenin 0 ആയിരിക്കും അതുകൊണ്ടാണ് VThevenin 0 ഇത് ഒരു തെവെനിൻ തുല്യമായ സർക്യൂട്ട് മാത്രമാണ് RThevenin VThevenin 0 ആയിരിക്കും കാരണം സർക്യൂട്ടിൽ സ്വതന്ത്ര സ്രോതസ്സ് ഇല്ല അതിനാൽ ഇതോടു കൂടി തെവെനിൻ സിദ്ധാന്തവും നോർട്ടൺ സിദ്ധാന്തവും പഠിച്ചു അടിസ്ഥാനപരമായി ഇത് തെവെനിൻ നോർട്ടൺ പരിവർത്തനമാണ് സ്രോതസ്സ് പരിവർത്തനം ചെയുക വര്ഷങ്ങളായുള്ള എക്സ്പീരിയൻസ് ൽ കണ്ടതാണ് കുട്ടികൾ RThevenin's കണ്ടു പിടിക്കാനുള്ള കണക്കു കൂട്ടലുകളിൽ ആണ് പ്രശ്നം നേരിടുക അതുകൊണ്ടാണ് നിരവധി ഉദാഹരണങ്ങൾ എടുത്തിട്ടുള്ളത് ഈ ഉദാഹരണങ്ങൾ ഇത് മനസിലാക്കാൻ വളരെയധികം സഹായിക്കും ഇതിനെ തെവെനിൻ നോർട്ടൺ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു അടുത്തത് പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തമാണ് അതിനാൽ സിദ്ധാന്തത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം അതിനാൽ പല പ്രായോഗിക കേസുകളിലും ഒരു ലോഡിന് വൈദ്യുതി നൽകുന്നതിനായി ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പല മേഖലകളിലും ആപ്ലിക്കേഷനുകൾ ഉണ്ട് അവിടെ ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന പവർ പരമാവധി വർദ്ധിപ്പിക്കുന്നത് അഭികാമ്യമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ പരമാവധി പവർ കണ്ടെത്തുന്നതിന് തെവെനിൻ തുല്യമായത് വളരെ ഉപയോഗപ്രദമാണെന്ന് കണ്ടെത്തും അതിനാൽ ഒരു ലീനിയർ സർക്യൂട്ടിന് ഒരു ലോഡ് ലേക്ക് പരമാവധി പവർ എത്തിക്കാൻ കഴിയും അത് തെവെനിൻ തുല്യമാണ് പരമാവധി പവർ കണ്ടെത്തുന്നതിന് ഉപയോഗപ്രദമായത് കൂടാതെ ഒരു ലീനിയർ സർക്യൂട്ടിന് ഒരു ലോഡിലേക്ക് എത്തിക്കാൻ കഴിയും അതിനാൽ ലോഡ് റെസിസ്റ്റൻസ് RL കരുതുക ക്രമീകരിക്കാവുന്നതാണെന്ന് അത് വേരിയബിൾ ആണെന്നും കരുതുക അതിനർത്ഥം RL മാത്രമേ വേരിയബിൾ ബാക്കിയുള്ള സർക്യൂട്ട് ഫിക്സഡ് ആണ് ഇത് പ്രതിനിധീകരിക്കാൻ VThevenin RThevenin നു കഴിയും കാരണം ബാക്കി സർക്യൂട്ടിൽ ഒരു പാരാമീറ്ററുകളും മാറ്റുന്നില്ല RL കൂടാതെ അതിനാൽ അങ്ങനെയാണെങ്കിൽ ഒരു സർക്യൂട്ട് നൽകിയിട്ടുണ്ടെന്നുംകരുതുക VThevenin RThevenin എന്നിവ ഒരു ലോഡ് റെസിസ്റ്റൻസ് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഈ ചിഹ്നം ഒരു വേരിയബിൾ ചിഹ്നമാണ് പിന്നെ iL iL VThevenin RThevenin RL അതിനാൽ ലോഡ് ൽ ഉള്ള പവർ RL p L iL 2 RL ഈ സർക്യൂട്ട് നിന്ന് iL VThevenin RThevenin RL ഇത് iL 2 RL അങ്ങനെ VThevenin RThevenin RL 2 RL അതിനാൽ ഇതാണ് പവർ എക്സ്പ്രഷൻ ഒരു സർക്യൂട്ട് ൽ VThevenin RThevenin ഫിക്സഡ് ആണ് RL മാത്രമേ വേരിയബിള് ഉള്ളു ഇപ്പോൾ pL ഉം RThevenin RL ഉം തമ്മിൽ പ്ലോട്ട് ചെയുക ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇത് 0 ൽ നിന്ന് ആരംഭിക്കുന്നു അതിനാൽ പ്ലോട്ട് ഇതുപോലെയാകും അതിനാൽ ഇത് പരമാവധി പവർ ട്രാൻസ്ഫർ ലഭിക്കുന്ന പരമാവധി പോയിന്റാണ് RL RThevenin ആകുമ്പോൾ ഇത് സംഭവിക്കും ഈ വശം RL ഉം ഈ വശം p L ഉം ഇതാണ് pLmax ഈ പോയിന്റ് pLmax ആണ് ഇത് RL RThevenin ആകുമ്പോൾ ലഭിക്കും അതിനാൽ എങ്ങനെ R L RThevenin ലഭിക്കും ഇവിടെ ഈ സമവാക്യത്തിൻറെ ഡെറിവേറ്റീവ് R L മായി ബന്ധപ്പെടുത്തി എടുക്കുക അതിനാൽ RL 0 ക്കും അനന്തതയ്ക്കും ഇടയിൽ വ്യത്യാസപ്പെടാം പക്ഷേ d pL dRL 0 എന്ന് പറഞ്ഞാൽ ഈ സമവാക്യ നമ്പർ 16 നൽകിയിരിക്കുന്നു അതിനാൽ ഡെറിവേറ്റീവ് 0 ആയി സജ്ജമാക്കുകയാണെങ്കിൽ RL RThevenin ലഭിക്കും അതിനാൽ RL RThevenin ആയിരിക്കുമ്പോൾ പരമാവധി പവർ സംഭവിക്കുന്നു അങ്ങനെ എങ്കിൽ RL RThevenin സമവാക്യത്തിൽ ഇടുക അപ്പോൾ ലഭിക്കും pLmax VThevenin 2 4 RThevenin ഇത് ഇത് മനസ്സിൽ സൂക്ഷിക്കുക മാക്സിമം പവർ S VThevenin 2 4 RThevenin ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം RL ന്റെ മൂല്യം നിർണ്ണയിക്കുക പരമാവധി വൈദ്യുതി കൈമാറ്റത്തിനായി ചിത്രം 79 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ പരമാവധി പവർ കണ്ടെത്തുക അതിനാൽ ആദ്യം ചെയ്യേണ്ടത് പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിന് പരമാവധി പവർ RL RThevenin ആയിത്തീരും അതായത് VThevenin RThevenin ഈ സർക്യൂട്ടിനായി നേടേണ്ടതുണ്ട് അങ്ങനെ തുടർന്ന് ഏതൊരു RThevenin പരമാവധി വൈദ്യുതി കൈമാറ്റം RL RThevenin ആകുമ്പോൾ ചെയ്യും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഇത് തുറക്കുന്നതിന് ഈ RL തുറക്കുക RL കൂടാതെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുL ആദ്യം അതിനാൽ കറന്റ് സ്രോതസ്സ് ഓഫ് ചെയ്യണം അതിനാൽ ഇത് തുറന്നിരിക്കുന്നു വോൾട്ടേജ് സ്രോതസ്സ് ഓഫ് ചെയ്യണം അതിനാൽ ഇത് ഷോർട്ട് ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്താൽ 12 Ω 6 Ω എന്നിവ കണ്ടെത്തും അവ സമാന്തരമാണ് അതായത് 12 6 12 6 ഇത് 72 8 ആയിരിക്കും അതിനാൽ 4 Ω ഈ 2 Ω 3Ω എന്നിവ ശ്രേണിയിലാണ് അതിനാൽ ഇത് 4 3 2 ആയിരിക്കും അതിനാൽ ഇത് RThevenin 9 Ω ആയിരിക്കും മനസ്സിൽ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ തെവെനിൻ വോൾട്ടേജ് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് ഇവിടെ 2 മെഷ് i1ഉം i2 ഉം എടുക്കുക i1ഉം i2 ഉം ഉപയോഗിച്ച് ഇത് പരിഹരിക്കുക അതിനാൽ ഈ RThevenin നിങ്ങളോട് നേരിട്ട് പറഞ്ഞു ഇത് 9 ആയിരിക്കും കാരണം ഇവ രണ്ടും സമാന്തരമായിരിക്കുന്നതിനാൽ അവയുടെ തുല്യമായിരിക്കും 12 6 12 6 അതിനാൽ 4Ω അതിനാൽ 4 3 2 9 ആണ് ഈ സന്ദർഭത്തിൽ i1 i2 ഘടികാരദിശയിൽ ഒരു ചാക്രിക കറന്റ് എടുക്കുന്നു അതിനാൽ ഈ കറന്റ് യഥാർത്ഥത്തിൽ രണ്ട് ആമ്പിയർ മുകളിലേക്ക് പോകുന്നു ഇതുപോലെയാണ് അതിനാൽ i2 ആയിരിക്കും 2 ആമ്പിയർ 2 ആമ്പിയർ അതായത് i2 ലഭിക്കും അതിനാൽ KVL പ്രയോഗിക്കുക വിളിക്കുക ഇവിടെ ഈ ലൂപ്പിൽ i2 അറിയാം അങ്ങനെ ചെയ്താൽ i2 എന്നത് 2 ആമ്പിയർ അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് 6 ഇതായിരിക്കും i1 ഇത് 6 i1 6 i1 12 i1 i2 ഇത് കാരണം ഇത് നീങ്ങുന്നു ഇതിലേക്ക് പോകുന്നു 12 0 അതിനാൽ i2 2 ആമ്പിയർ അതിനാൽ ഇവിടെ i2 ഇടുക 2 ആമ്പിയർ i1 നായി പരിഹരിക്കുകഞാൻ അത് മായ്ക്കട്ടെ അതിനുശേഷം Voc നിങ്ങളോട് പറഞ്ഞു RThevenin 9 Ω മുമ്പും i2 2 ആമ്പിയർ ആ മെഷിൽ പ്രയോഗിക്കുമ്പോൾ എനിക്ക് i1 2 3 ആമ്പിയർ അത് ലഭിക്കും അതായത് i1 ഈ സർക്യൂട്ടിലുള്ള i1 2 3 പിന്നെ എന്ത് VThevenin കണ്ടെത്തണം അതിനാൽ ഈ സാഹചര്യത്തിൽ VThevenin കണ്ടെത്താൻ കഴിയും VThevenin കണ്ടെത്താൻ മറ്റ് നിരവധി മാർഗങ്ങളുണ്ട് ഇവിടെ കറന്റ് ഇല്ല കാരണം ഇത് തുറന്നിരിക്കുന്നു KVL ഇതുപോലെ പ്രയോഗിക്കുക അതിനാൽ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക i2 ഇങ്ങനെയാണെങ്കിൽ ഇത് 3 i2 ആയിരിക്കും പിന്നെ 6 i1 പിന്നെ ഇതുപോലെ എടുക്കുന്നു 12 Voc 0 ആയിരിക്കും ഇത് പോലെ എഴുതാൻ കഴിയും അത് മായ്ക്കാം ഘടികാരദിശയിൽ എടുക്കാം അല്ലെങ്കിൽ എതിർ ഘടികാരദിശയിൽ ഇത് പ്രശ്നമല്ല അതിനാൽ ഈ സാഹചര്യത്തിൽ അത് സംഭവിക്കും 3 i2 12 i1 i2 Voc ഇത് സമാന ഫലം ലഭിക്കും അതിനാൽ സമാനമായ രീതിയിൽ ഈ കാര്യത്തിനായി ഈ സമവാക്യം എഴുതുന്നു 3 i2 VThevenin 12 i2 i1 ഇവിടെ ഈ സാഹചര്യത്തിൽ എതിർ ഘടികാരദിശയിൽ എടുക്കാം ഈ സമവാക്യം അതിൽ ഘടികാരദിശയിൽ എഴുതിയിരിക്കുന്നു അതിനർത്ഥം ചിഹ്നം മാറ്റുകയാണെങ്കിൽ അത് 3 i2 12 i1 i2 0 ആയിരിക്കും ചിഹ്നം ഘടികാരദിശയിലും എതിർ ഘടികാരദിശയിലും മാറ്റുകയാണെങ്കിൽ ഒരേ കാര്യം അതിനാൽ ഇത് പരിഹരിച്ചുകൊണ്ട് VThevenin 22 വോൾട്ട് പരമാവധി പവർ ട്രാൻസ്ഫർ RL RThevenin അതിനാൽ ഇതാണ് pLmax VThevenin 2 4 RL എന്ന സമവാക്യം അതിനാൽ 222 4 9 അതിനാൽ 13 44 വാട്ട് ഇതാണ് pLmax അതിനാൽ ചിത്രം 81 ന്റെ സർക്യൂട്ടിൽ എന്ത് റെസിസ്റ്റർ RL പരമാവധി പവർ ആഗിരണം ചെയ്യും എന്താണ് പവർ അങ്ങനെ ഇവിടെ കണ്ടെത്താൻ ഒരേ കാര്യം ഉണ്ട് VThevenin RThevenin ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് അവിടെ ഉണ്ട് iX ഇവിടെ ആണ് കറന്റ് i x ഉള്ളത് അതിനാൽ പരമാവധി വൈദ്യുതി കൈമാറ്റത്തിന് എന്ത് സംഭവിക്കും അറിയുക pLmax VThevenin 2 4 RThevenin അതിനാൽ ഇവിടെ ഇത് ഓപ്പൺ സർക്യൂട്ട് Voc ഓപ്പൺ സർക്യൂട്ട് ആണ് അത് ഓപ്പൺ സർക്യൂട്ട് ആയ ഉടൻ തന്നെ ഒരു കാര്യം ഉണ്ട് അത് ix ആയി സൂക്ഷിക്കുന്നു മുമ്പത്തെ ix മാറും പക്ഷേ ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനാൽ ഇത് Voc VThevenin നാണ് ഇത്ലഭിക്കുന്നത് എന്താണ് ഇതിനെ വിളിക്കുന്നത് 4 ആമ്പിയർ കറന്റ് അതാണ് സ്വതന്ത്ര കറന്റ് സ്രോതസ്സ് ഇത് 10 ആണ് ഇത് 4 ആണ് അതിനാൽ ഇതിൽ കൂടെ ഉള്ള കറന്റ് ix ആണ് ഇത്ഇവിടെ ഇത് ix ഒരു കറന്റ് ഡിവിഷനാണ് അതിനാൽ ഇത് 40 10 40 ഈ 4 ആമ്പിയർ ഈ 4 ആമ്പിയർ കറന്റ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് 3 2 ആമ്പിയർ ആയിരിക്കും അതിനാൽ ഇത് 3 2 ആമ്പിയർ കറന്റാണ് അതിനാൽ ഇത് 3 2 ആമ്പിയർ കറന്റാണെങ്കിൽ ഇത് 4 3 2 നേരിട്ട് ഇത് ലഭിക്കുന്നത് 0 8 ആമ്പിയർ ആയിരിക്കും ഇത് 8 ആമ്പിയർ ഉണ്ട് അതായത് 10 ix ix 3 2 അതായത് ഈ 10 ix 10 3 2 ആയിരിക്കും അതായത് 32 വോൾട്ട് അതിനാൽ ഈ കറന്റ് 0 8 ആമ്പിയർ ആണ് ഇപ്പോൾ Voc ലഭിക്കാൻ ഇവിടെ തന്നെ KVL പ്രയോഗിക്കാൻ ബാധകമാണ് അതിനാൽ അത് 10 ix 10 ix 30 വോൾട്ട് 32 വോൾട്ട് ആയിരിക്കും അതിനാൽ 10 ix മുപ്പത് വോൾട്ട് ടെർമിനൽ ആദ്യം നേരിട്ട് എത്തുന്നത് 32 ഉം ഈ 0 8 ആമ്പിയർ ഈ കറന്റ് ഇതിലൂടെ ഒഴുകുന്നു അതിനാൽ 40 0 8 തുടർന്ന് ടെർമിനൽ ആദ്യം എത്തുന്നത് തുടർന്ന് Voc 0 ഒരു പദവും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രത്യാശ അതിനാൽ Vocമായ്ക്കട്ടെ 64 വോൾട്ട് അതിനാൽ ഇതിലേക്ക് പോകുന്നതിനുമുമ്പ് ഇത് നോക്കുകയാണെങ്കിൽ VThevenin ഇവിടെ 64 വോൾട്ട് നേടി അതിനാൽ ഇപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന ചോദ്യം ഉണ്ട് അതുപോലെ തന്നെ നോർട്ടണിനും ഈ നോർട്ടൺ അർത്ഥമാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് ചോദ്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇതാണ് ix ഉം ഇത് 10 ഉം ഇത് 40 ഉം ഇതാണ് ഇത് എന്ത് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സാണ് അതിനാൽ ഇത് ഈ നോർട്ടൺ പ്രയോഗിക്കുമ്പോഴെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത് ix കറന്റ് കിട്ടി അത് എങ്ങനെ ലഭിക്കുന്നുവെന്ന് ഇപ്പോൾ അറിയുക അതിനാൽ ചോദ്യം ഇതാണ് ഇത് ഷോർട്ട് ആണ് അതിനാൽ അടിസ്ഥാനപരമായി എന്തായിരിക്കും ഇത് ix ix ix അതിനാൽ ഇത് ഷോർട്ടായിരിക്കുന്നു അതിനാൽ ആദ്യത്തെ കാര്യം ഈ കറന്റ് വിഭജനം എങ്ങനെയാണെന്ന് കാണണം അതിനാൽ ഈ 10 Ω 40 Ω എന്നിവ സമാന്തരമാണ് ഇതാണ് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ix ix അതിനാൽ ഈ സാഹചര്യത്തിൽ ix എന്തായിരിക്കും മുമ്പുള്ള ix ആയിരിക്കും 3 2 3 2 ആമ്പിയർ കറന്റ് 0 8 ആമ്പിയറിന് ആയിരിക്കും ഇപ്പോൾ ചോദ്യം എന്താണ് isc കാരണം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് പാതയാണ് ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് പാതയായതിനാൽ എന്തായിരിക്കും isc അതിനാൽ ഈ 4 ആമ്പിയർ കറന്റ് യഥാർത്ഥത്തിൽ നേരിട്ട് ഇതിലൂടെ കടന്നുപോകും ഷോർട്ട് സർക്യൂട്ട് പാത്ത് കാരണം ഈ സാഹചര്യത്തിൽ അത് ഫലപ്രദമല്ലാതാകും i ഇത് ഫലപ്രദമല്ലെങ്കിൽ ഇത് ix 0 ആയിരിക്കും അങ്ങനെ ഇവിടെ കേവലം 4 ആമ്പിയർ ഉണ്ടാകും അതിനാൽ സാധാരണയായി ഷോർട്ട് സർക്യൂട്ടിലൂടെയുള്ള ഏതെങ്കിലും വൈദ്യുത പ്രവാഹം ഉണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും ഇലക്ട്രിക്കൽ ഘടകങ്ങളെലേക്ക് പോകില്ല അതിനാൽ ഇതാണ് അടിസ്ഥാനപരമായി ix 0 ആയിരിക്കും അതിനാൽ ഇവിടെ ഒന്നും സാധ്യമല്ല കൂടാതെ ഈ 4 ആമ്പിയറുകളും ഇതുപോലെ ഒഴുകും ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ലൂപ്പിലായിരിക്കും അതിനാൽ isc 4 ആമ്പിയർ അതിനാൽ ഈ കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ആയിരിക്കും ix ' 0 ഒരേയൊരു കാര്യം അത് ഷോർട്ട് സർക്യൂട്ട് അല്ലാത്ത സമയത്ത് കറന്റ് ഡിവിഷൻ ഉണ്ടാകും അത് പറഞ്ഞതാണ് ഷോർട്ട് സർക്യൂട്ട് ഉള്ളപ്പോൾ അവർ ഒന്നും പിന്തുടരുകയില്ല അതുകൊണ്ടു isc 4 ആമ്പിയർ ആയിരിക്കും അതിനാൽ RThevenin VThevenin 64 4 ആയിരിക്കും പതിനാറ് ആയിരിക്കും അതിനാൽ പരമാവധി വൈദ്യുതി കൈമാറ്റത്തിന് RL RThevenin 16 Ω pLmax VThevenin 2 4 RThevenin അതിനാൽ 64 വാട്ട് അതിനാൽ ഇതാണ് ഉത്തരം നോക്കൂ ഈ അധ്യായത്തിന്റെ അവസാന ഉദാഹരണമാണിത് സർക്യൂട്ടിൽ RL കണ്ടെത്തുന്നതും പരമാവധി വൈദ്യുതി കൈമാറ്റം pl നിർണ്ണയിക്കുക അതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കില്ല അതിനാൽ ഉദാഹരണങ്ങൾ പലരും വിശദീകരിച്ചിട്ടുണ്ട് ഇത് വളരെ ദൈർഘ്യമേറിയ നടപടിക്രമമാണ് അതിനാൽ ഇവിടെ 0 1 Vx ഇവിടെ Vx ഉണ്ട് കൂടാതെ പരമാവധി പവർ കണ്ടെത്തണം അതിനാൽ RL RThevenin അതിനാൽ Voc VThevenin അതിനാൽ ഈ y നൽകിയിട്ടുണ്ട് ix നൽകിയിട്ടുണ്ട് Vx നൽകിയിട്ടുണ്ട് ഇത് ഇവിടെ നോഡ് a ആണ് ഇത് KCL അപ്ലൈ ചെയുക ഇതാണ് ഷോർട്ട് സർക്യൂട്ട് നോർട്ടനും ഇത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് കാണിക്കുന്നു ഇത് RThevenin ആണ് ഇത് നോർട്ടണിനുള്ള ഓപ്പൺ സർക്യൂട്ട് ആണ് ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നിട്ട് ഈ രണ്ട് സർക്യൂട്ട് നോക്കുമ്പോൾ ഇത് VThevenin നുള്ളതാണ് ഇത് V Nortonനുള്ളതാണ് ദയവായി ഇതിലൂടെ പോകുക ഇത് വിശദീകരിക്കുന്നില്ല ഇത് അവസാനത്തേതാണ് എല്ലാം വിശദമായി എഴുതിയിരിക്കുന്നു എല്ലാം ഇപ്പോൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ കാരണം സമയ സമയമെടുക്കുന്നു നോഡ് a ൽ KCL അപ്ലൈ ചെയുക അതു പരിഹരിക്കുക Vx 25 64 2564 വോൾട്ട് തുടർന്ന് VThevenin 3Vx മാറും അതിനാൽ ഇത് 76 92 വോൾട്ടും ix Vx 46 4 ആമ്പിയർ ഉം ആയിരിക്കും y എന്നത് 3 അതിനാൽ ഇതുപയോഗിച്ച് ടെർമിനലുകൾ 1 2 ഷോർട്ട് സർക്യൂട്ട് ചെയ്ത Vx 0 ആയിരിക്കും ഇതിനർത്ഥം 4 12 Ω അതായത് 4 12 Ω ഇത് യഥാർത്ഥത്തിൽ 12 ആണ് അത് Vx 0 ആണ് അതിനാൽ യഥാർത്ഥത്തിൽ ഇവിടെ സർക്യൂട്ടിലേക്ക് നോക്കുക Vx 0 ആണ് ഇത് യഥാർത്ഥത്തിൽ 1 ഒരു എഴുത്ത് പിശക് ഇവിടെ യഥാർത്ഥത്തിൽ ഇത് 8 ആണ് അതിനാൽ ഇത് 12 ആയിരിക്കും ഇത് ഒരു എഴുത്ത് പിശകാണ് അതിനാൽ ഇത് 12 ആയിരിക്കും അത് RThevenin ആകും ഈ VThevenin isc ഇത് 8 12 അതിനാൽ 4 അതിനാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല കാരണം പലതും ചെയ്തു അതിനാൽ പരമാവധി പവർ ട്രാൻസ്ഫറിനായി pLmax VThevenin 2 4 RThevenin അതിനാൽ 76 9 2 4 RThevenin അതായത് 4 51 വാട്ട് അതിനാൽ ആകെ 31 അല്ലെങ്കിൽ 30 31 പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരിശീലനത്തിന് ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനാൽ അത് നൽകുന്നില്ല അതിനാൽ എല്ലാത്തരം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഡിസി പഠിക്കേണ്ടതുണ്ട് കൂടാതെ ക്ഷണികം ഇൻഡക്ടറുകളെയും കപ്പാസിറ്ററുകളെയും കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതിനാൽ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം വീണ്ടും ആ പരിശീലനം പറയാൻ ആഗ്രഹിക്കുന്നു ഏത് പുസ്തകവും എടുത്ത് ധാരാളം പരിശീലിക്കുക ഇത് പൂർണ്ണമായും ഉള്ളതിനാൽ കാണുക 75 മുതൽ 80 ശതമാനം വരെ അടിസ്ഥാനപരമായി ഇലക്ട്രിക് സർക്യൂട്ട് സിദ്ധാന്തമാണ് കൂടാതെ എല്ലാ നല്ല പുസ്തകങ്ങളും അതിൽ നൽകിയിട്ടുണ്ടെന്ന് കണ്ടെത്തുക അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും പുസ്തകം കണ്ടെത്തി നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക കാരണം പ്രധാനമായും പ്രശ്നങ്ങൾക്കുള്ളതാണ് ഒപ്പം നൽകേണ്ടതും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ പരീക്ഷിക്കേണ്ടതുമാണ് അടിസ്ഥാന ധാരണയിൽ നിന്ന് മനസ്സിലാക്കൽ ആരംഭിക്കുന്നു കാര്യങ്ങൾ എങ്ങനെയെന്ന് കാണാൻ ശ്രമിക്കുക കണ്ടെത്തൽ ഞാൻ എന്തെങ്കിലും കണക്കുകൂട്ടൽ പിശക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദയവായി എന്നെ അറിയിക്കൂ ഞാൻ എന്നെത്തന്നെ തിരുത്തും മടികാണിക്കരുത് എനിക്ക് മെയിൽ അയയ്ക്കുക അല്ലെങ്കിൽ ചോദ്യം ഫോറത്തിൽ ഇടുക ഉത്തരം നൽകും അതിനാൽ അടുത്തത് കപ്പാസിറ്ററിലേക്കും ഇൻഡക്ടറുകളിലേക്കും വരിക അതിനാൽ മുൻ അധ്യായങ്ങളിൽ പല സ്ഥലങ്ങളും അത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിനാൽ വേഡ് ബുക്ക് ഒരു അധ്യായമാണെന്ന് ദയവായി വായിക്കുക അതിനാൽ മുമ്പത്തെ അധ്യായത്തിൽ പ്രതിരോധങ്ങളും ഉറവിടങ്ങളും അടങ്ങിയ സർക്യൂട്ടുകൾ പഠിച്ചു അതിനാൽ പ്രതിരോധം ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് സ്രോതസ്സുകൾ എല്ലാം ഇപ്പോൾ ഇപ്പോൾ ഈ അധ്യായത്തിൽ കപ്പാസിറ്ററുകളും ഇൻഡക്ടറുകളും ആയ രണ്ട് അധിക സർക്യൂട്ട് ഘടകങ്ങൾ അവതരിപ്പിക്കുന്നത് കാണും അതിനാൽ ഇതിനുശേഷം ഇത് പഠിക്കും ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് കാരണം കപ്പാസിറ്റർ ഇൻഡക്റ്ററുകൾ പഠിക്കാൻ ഉള്ളതും എസി സർക്യൂട്ട് അതിനാൽ ഈ അധ്യായത്തിൽ രണ്ട് അധിക സർക്യൂട്ട് ഘടകങ്ങൾ കപ്പാസിറ്ററുകളും ഇൻഡക്ടറുകളും അവതരിപ്പിക്കും അതിനാൽ റെസിസ്റ്ററുകൾ പരിവർത്തനം ചെയ്യുന്നു കറന്റ് വൈദ്യുതോർജ്ജം താപം പരിവർത്തനം ചെയ്യുന്നു പക്ഷേ കപ്പാസിറ്ററുകളും ഇൻഡക്ടറുകളും ഊർജ സംഭരണ ഘടകങ്ങളാണ് അവയിൽ ഊർജ്ജം സംഭരിക്കാൻ കഴിയും പക്ഷേ അവ ഊർജ്ജം സംഭരിക്കാൻ കഴിയില്ല അതിനാൽ അവ നിഷ്ക്രിയ ഘടകങ്ങളാണ് അതിനാൽ കപ്പാസിറ്ററുകളും ഇൻഡക്ടറുകളും ഊർജ്ജം സംഭരിക്കുന്നു അത് പിന്നീട് വീണ്ടെടുക്കാൻ കഴിയും അതിനാൽ കപ്പാസിറ്ററുകളും capacitor ഇൻഡക്ടറുകളും ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നില്ല ഈ മൂലകങ്ങൾ പുറത്തെടുത്ത ഊർജ്ജം മാത്രം അതിനാൽ കപ്പാസിറ്റർ റെസിസ്റ്റർ കപ്പാസിറ്ററുകളും ഇൻഡക്ടറുകളും പോലെ നിഷ്ക്രിയ മൂലകം ആണ് അതിനാൽ കപ്പാസിറ്റർ ഇൻഡക്റ്ററുകളും നിഷ്ക്രിയ മൂലകങ്ങളാണ് കാരണം അവയ്ക്ക് അവയ്ക്ക് ഊർജ്ജം ഉൽപാദിപ്പിക്കാൻ കഴിയില്ല കപ്പാസിറ്ററിൽ ഊർജ്ജം സംഭരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇൻഡക്റ്ററിന് വീണ്ടെടുക്കാനും കഴിയും അതിനർത്ഥം ചിലപ്പോൾ ഊർജ്ജം സംഭരിക്കാൻ കഴിയുമെന്നതിനാൽ അവർക്ക് മെമ്മറി ഉണ്ടെന്ന് പറയുക അതിനാൽ അതുകൊണ്ടാണ് ഇവ നിഷ്ക്രിയ ഘടകങ്ങളാണ് അതിനാൽ അനുയോജ്യമായ കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് വൈദ്യുതധാരയുടെ സമയ സമന്വയത്തിന് ആനുപാതികമാണെന്ന് ഇത് മനസിലാക്കും ഇത് ഹൈ സെക്കൻഡറി ഫിസിക്സിൽ നിന്നും പഠിക്കുന്നു മറുവശത്ത് അനുയോജ്യമായ ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് നിലവിലെ ഡെറിവേറ്റീവിന് ആനുപാതികമാണ് ഇത് ഹൈ സെക്കൻഡറി ഫിസിക്സ് വൈദ്യുതി അധ്യായത്തിൽ നിന്നും പഠിച്ചതാണ് ഞാൻ ഇത് മായ്ക്കട്ടെ അതിനാൽ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും അടിസ്ഥാനമാക്കിയുള്ള നിരവധി തരം ട്രാൻസ്ഡ്യൂസറുകൾ ഈ അധ്യായങ്ങൾ പഠിച്ച ശേഷം അടിസ്ഥാന സർക്യൂട്ട് വിശകലന രീതി വിപുലീകരിക്കാൻ തയ്യാറാകും മുൻ അധ്യായത്തിൽ പഠിച്ചതെല്ലാം ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഉള്ള സർക്യൂട്ടിലേക്ക് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ അതിനർത്ഥം ഒരു കപ്പാസിറ്ററുകൾ അതിന്റെ വൈദ്യുത മണ്ഡലത്തിൽ ഊർജ്ജം സംഭരിക്കുന്നു അതിനാൽ കപ്പാസിറ്ററുകൾ ഏറ്റവും സാധാരണമായ വൈദ്യുത ഘടകമാണ് അവ പവർ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടറുകൾ ഇലക്ട്രോണിക്സ് എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി കപ്പാസിറ്ററുകൾ നിർമ്മിക്കുന്നത് രണ്ട് ചാലക പ്ലേറ്റുകൾ വേർതിരിച്ചാണ് ഇത് സാധാരണയായി ലോഹമായ ഇൻസുലേറ്റിംഗ് വസ്തുക്കളുടെ നേർത്ത പാളിയാണ് പല ആപ്ലിക്കേഷനുകളിലും ചാലക പ്ലേറ്റുകൾ അലുമിനിയം ഫോയിൽ ആയിരിക്കാം അത് നടത്തുന്ന പ്ലേറ്റുകൾ അലുമിനിയം ഫോയിലും ചാലക പ്ലേറ്റുകൾക്കിടയിലുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും ആയിരിക്കാം ഒരു ഡീലക്ട്രിക് എന്ന് വിളിക്കുന്നു അത് വായു സെറാമിക് പേപ്പർ മൈക്ക മൈലാർ പോളിസ്റ്റർ അല്ലെങ്കിൽ പോളിപ്രൊഫൈലിൻ അല്ലെങ്കിൽ മറ്റ് പലതരം വസ്തുക്കൾ ആകാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ രണ്ട് പ്ലേറ്റ് കണ്ടക്റ്റിംഗ് പ്ലേറ്റും അതിനിടയിൽ ഡീലക്ട്രിക് കോൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും ഉണ്ട് അതിനാൽ ചിത്രം 1 ഞങ്ങൾ അഞ്ചാം അധ്യായം സജ്ജമാക്കും 5 1 അതിനാൽ ചിത്രം 1 എന്നത് ഒരു സമാന്തര പ്ലേറ്റ് കപ്പാസിറ്ററാണ് 0 അതിനാൽ ഇതിലേക്ക് പോകുക അതിനാൽ ഇത് ഒരു സമാന്തര പ്ലേറ്റ് കപ്പാസിറ്റർ ലളിതമായ ഡയഗ്രമാണ് അതിനാൽ ഇത് ഡീലക്ട്രിക് ആണ് ഈ മുകളിലും താഴെയുമുള്ള രണ്ട് ചാലക പ്ലേറ്റുകളും ഇതിനിടയിലുമാണ് ഇതിനിടയിൽ ഇത് ഡീലക്ട്രിക് ആണ് ഏത് പുസ്തകത്തിനും ഈ ഡയഗ്രം ലഭിക്കും അതിനാൽ സമാന്തര പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഡീലക്ട്രിക് ലെയർ ഉപയോഗിച്ച് വേർതിരിച്ച രണ്ട് ചാലക പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു